ട്രേഡ് മാർക്ക് എന്ന് പറയുന്നത് വ്യവസായത്തിൽ ഉപയോഗിക്കുന്ന ചിഹ്നങ്ങളാണ് വ്യവസായ സംരംഭങ്ങളുടെ സേവനങ്ങളും ഉല്പന്നങ്ങളും തിരിച്ചറിയുവാനാണിതുപയോഗിക്കുന്നത് വ്യവസായം എന്ന് പറഞ്ഞാൽ കച്ചവടമാണ് അതുകൊണ്ട് ട്രേഡ് മാർക്കുകൾ മനസ്സിലാകണമെങ്കിൽ എന്താണ് കച്ചവടം എന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു ഒരു കച്ചവടം എന്ന് പറയുന്നത് പണത്തിനു പകരമായി സേവനങ്ങളും ഉല്പന്നങ്ങളും പ്രദാനം ചെയ്യുന്ന സ്ഥാപനമോ സാമ്പത്തിക വ്യവസ്ഥയോ ആണ് പണത്തിനു പകരമായി സേവനങ്ങളും വസ്തുക്കളും കൈമാറ്റം ചെയ്യുന്നതാണ് കച്ചവടം ഇവിടെ വളരെയധികം കാര്യങ്ങൾ ഒന്നിച്ചു വരുന്നുണ്ട് കച്ചവടം എന്ന് പറയുമ്പോൾ പരസ്പര വ്യവഹാരം ആണ് വ്യവഹാരത്തിൽ ഉള്ളടങ്ങിയിരിക്കുന്നത് വസ്തുക്കളാണ് വിലപിടിപ്പുള്ള വസ്തുക്കളെ പണത്തിനുവേണ്ടി കൈമാറുകയാണ് ഇവിടെ പരസ്പര വ്യവഹാരത്തിന് പല അർത്ഥങ്ങൾ ഉണ്ടാകാം അതൊരു ഇടപാട് ആകാം ഒരു കൈമാറ്റം ആകാം വെറുതെ ഒരു പ്രവൃത്തി മാത്രമല്ല പ്രവർത്തി ചെയ്യുന്നത് ആളുകൾ ആണ് കച്ചവടത്തിൽ നമ്മൾ അതിനെ പാർട്ടികൾ എന്നു പറയും അതുകൊണ്ട് പ്രവർത്തിയുണ്ട് പ്രവർത്തിക്കുന്ന പാർട്ടികൾ ഉണ്ട് അപ്പോൾ ഈ പ്രവർത്തികൾ ചെയ്യുന്നതിന് ഏറ്റവും ചുരുങ്ങിയത് രണ്ട് ആളുകൾ വേണം രണ്ടാളുകൾ ഒരുപക്ഷേ ഒരാൾ വാങ്ങുന്നു മറ്റേയാൾ വിൽക്കുന്നു ഒരാൾ പാട്ടത്തിനു കൊടുക്കുന്ന ആളായിരിക്കാം മറ്റെയാൾ പട്ടക്കാരനും ആയിരിക്കാം അപ്പോൾ പാർട്ടികൾ തമ്മിൽ നടത്തുന്ന ഇടപാടുകളെ ആണ് നമ്മൾ ഇവിടെ വ്യവഹാരം എന്ന് പറയുന്നത് മറ്റൊരു കാര്യം ഉള്ളത് കച്ചവടം വസ്തുക്കളെയോ ഉൽപ്പന്നങ്ങളേയോ സൂചിപ്പിക്കുന്നു എന്നതാണ് അവയെ ഉൽപ്പന്നങ്ങൾ എന്നോ വ്യാപാര ചരക്കുകൾ എന്നോ പറയാം അതുകൊണ്ടാണ് നമുക്ക് ജിഎസ് ടി ഉള്ളത് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് ഗുഡ്സ് ആൻഡ് സർവീസസ് എന്ന വാക്ക് വ്യാപാരത്തിൽ അഥവാ വ്യവസായത്തിൽ വരാവുന്ന എല്ലാത്തിനെയും ഉൾക്കൊള്ളുന്നു ബിസിനസ് നിർവചനത്തിൽ വരാവുന്ന മൂന്നാമത്തെ കാര്യമാണ് കൈമാറ്റം എന്നത് അതായത് വസ്തുക്കളുടെയും സേവനങ്ങളുടെയും കൈമാറ്റം നടക്കുന്നത് പണത്തിനുവേണ്ടിയാണ് എന്നത് അതായത് കൈമാറ്റം ചെയ്യപ്പെടുന്നത് മൂല്യമുള്ള അഥവാ വിലപിടിപ്പുള്ള ഉല്പന്നങ്ങളും സേവനങ്ങളും ആണ് എന്ന് ചുരുക്കം അങ്ങനെ പണത്തിനു വേണ്ടി അല്ല കൈമാറ്റം നടക്കുന്നതെങ്കിൽ നമ്മൾ അതിനെ ഒരിക്കലും വ്യവസായം അല്ലെങ്കിൽ കച്ചവടം എന്ന് വിളിക്കുകയില്ല ഉദാഹരണത്തിന് ഒരു പിതാവ് തൻറെ മകനോ മകൾക്കോ ബത്തയായി പണം നൽകുന്നതിനെ നമ്മൾ ഒരിക്കലും വ്യാപാര ഇടപാട് എന്ന് വിളിക്കുകയില്ല ഇനി ഒരു പക്ഷേ ഒരു സുഹൃത്ത് മറ്റൊരു സുഹൃത്തിന് അവൻറെ ആവശ്യത്തിൽ പണം കൊടുക്കുന്നതോ ആളുകൾ ഏതെങ്കിലും തരത്തിലുള്ള സംഭാവനകൾ നൽകുന്നതോ ആവശ്യത്തിൽ ഇരിക്കുന്ന ആളുകളെ പണവും വസ്തുക്കളും കൊടുത്ത് സഹായിക്കുന്നതോ ഒന്നും തന്നെ വ്യാപാര ഇടപാടുകളുടെ പരിധിയിൽ വരുന്നില്ല ആവശ്യത്തിൽ ഇരിക്കുന്നവരെ സഹായിക്കുന്നത് ഉപവിപ്രവർത്തികൾ ആയിട്ടാണ് കണക്കുകൂട്ടുക കൊടുക്കുന്ന ഉൽപ്പന്നങ്ങൾക്കും സേവനങ്ങൾക്കും മൂല്യം നിശ്ചയിച്ച് പണത്തിനു പകരമായി കൈമാറ്റം സംഭവിക്കുന്നെങ്കിൽ മാത്രമേ നമ്മൾ വ്യാപാര ഇടപാട് എന്ന് വിളിക്കുകയുള്ളൂ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞു കച്ചവടം എന്ന് പറയുമ്പോൾ ഒട്ടുവളരെ കാര്യങ്ങൾ അതിലുള്ളടങ്ങിയിരിക്കുന്നു എന്ന് അവ ഒന്ന് പരസ്പരം ഉള്ള വ്യവഹാരമാണ് ആണ് 2 വ്യാപാരം നടത്തുന്നതിന് പാർട്ടികൾ ഉണ്ടായിരിക്കും 3 വ്യവഹാരം നടത്തുന്നത് മൂല്യമുള്ള ഉൽപ്പന്നങ്ങളും സേവനങ്ങളും ആണ് മൂല്യമുള്ള ഉൽപ്പന്നങ്ങളും സേവനങ്ങളും എന്ന് പറയുമ്പോൾ വില നിശ്ചയിക്കാൻ സാധിക്കുന്ന ഉൽപ്പന്നങ്ങളും സേവനങ്ങളും എന്നർത്ഥം 4 അതുകൊണ്ടുതന്നെ അതിന് പകരമായി പണം കൈമാറ്റപ്പെടുന്നു ഈ നിർവചനം വളരെ പ്രധാനപ്പെട്ടതാണ് കാരണം ഏതൊരു വ്യവസായവും മുതൽമുടക്ക് ആവശ്യപ്പെടുന്നു കാണാൻ സാധിക്കുന്നവയിൽ ചെയ്യുന്ന ഈ മുതൽമുടക്ക് കാണാൻ സാധിക്കാത്ത സ്വത്തിലേക്ക് നയിക്കുന്നു നമ്മൾ നേരത്തെ കണ്ടതാണ് വ്യവസായം പണം മുതൽ മുടക്കാൻ ആവശ്യപ്പെടുന്നു എന്ന് പക്ഷേ പണം മാത്രമായിരിക്കില്ല മുതൽമുടക്കിൻറെ പരിധിയിൽ വരുന്നത് അത് ഒരുപക്ഷേ അധ്വാനങ്ങളും പരിശ്രമങ്ങളും ആയിരിക്കാം അല്ലെങ്കിൽ ആളുകൾ ആയിരിക്കാം ഈ വിധത്തിൽ മുതൽമുടക്ക് എന്ന് പറയുമ്പോൾ അതിനകത്ത് വളരെയേറെ കാര്യങ്ങൾ വരുന്നുണ്ട് ഇങ്ങനെ നടത്തുന്ന മുതൽമുടക്കിലൂടെയാണ് മൂല്യമുള്ള വസ്തുക്കളും സേവനങ്ങളും ഉല്പാദിപ്പിക്കുന്നത് കച്ചവടം മുതൽമുടക്ക് ആവശ്യപ്പെടുന്നു അതുപോലെതന്നെ അതിന് ഇടപാടുകാരെയും അഥവാ ഉപഭോക്താക്കളെയും ആവശ്യമാണ് അതായത് മുതൽമുടക്കിലൂടെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഉൽപ്പന്നങ്ങളും സേവനങ്ങളും വാങ്ങുവാൻ ആളുകൾ ഉണ്ടായിരിക്കണം എന്നാലേ കച്ചവടത്തിൽ ലാഭം ഉണ്ടാക്കാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ കച്ചവടത്തിൽ മുതൽമുടക്കുണ്ട് അവിടെ ഉത്പാദിപ്പിക്കപ്പെടുന്ന സേവനങ്ങളും ഉല്പന്നങ്ങളും വാങ്ങുവാൻ ആളുകളുണ്ട് അതായത് ഇടപാടുകാർ ഇടപാടുകാർക്ക് നിങ്ങൾ ഉൽപാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങളും സേവനങ്ങളും പണത്തിനു പകരമായി കൊടുക്കുന്നു അതിലൂടെ നിങ്ങൾ ലാഭമുണ്ടാക്കുന്നു അതൊരിക്കലും ഒരു ഉപവി പ്രവർത്തിയല്ല കച്ചവടം ട്രേഡ് മാർക്കുകൾ ഉപയോഗിക്കുന്നു ട്രേഡ് മാർക്ക് എന്ന ആ പദത്തിൽ തന്നെ കച്ചവടം എന്ന പദം ഉണ്ട് ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് ട്രേഡ് മാർക്കുകളുടെ ഉപയോഗവും അവ എങ്ങനെ നിലവിൽ വന്നു എന്ന കാര്യവുമാണ് കാരണം നിങ്ങൾ മനസ്സിലാക്കി ട്രേഡ് മാർക്ക് എന്ന് പറയുന്നത് കച്ചവടവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു സംഗതിയാണെന്ന് കച്ചവടത്തിൽ രണ്ടുപേർ തമ്മിലുള്ള വ്യവഹാരം അഥവാ ഇടപാട് ഉണ്ടെന്നും വ്യവഹാരത്തിന് ഉപയോഗിക്കുന്നത് മൂല്യമുള്ള ഉൽപന്നങ്ങളും സേവനങ്ങളും ആണെന്നും മൂല്യമുള്ള ഈ ഉൽപന്നങ്ങളുടെയും സേവനങ്ങളുടെയും വില നിശ്ചയിക്കാൻ സാധിക്കുന്നവയാണെന്നും ഇങ്ങനെ നിശ്ചയിച്ച വിലയ്ക്ക് പകരമായി ഉൽപ്പന്നങ്ങളും സേവനങ്ങളും കൈമാറുന്നതും ആണ് കച്ചവടം അഥവാ വ്യാപാര ഇടപാട് എന്നും നമ്മൾ കണ്ടു വ്യാപാര ഇടപാടുകളിൽ മാത്രമാണ് ട്രേഡ് മാർക്കുകൾ ഉപയോഗിക്കുന്നത് അഥവാ ട്രേഡ് മാർക്ക് ഉത്ഭവിച്ചത് വ്യാപാര ഇടപാടുകളുടോനുബന്ധിച്ചാണ് ഇതുവരെ നമ്മൾ കണ്ട മറ്റ് ഇന്റെലക്ച്വൽ പ്രോപ്പർട്ടികളുടെ കാര്യത്തിലും ഇത് വളരെ ശരിയാണ് പേറ്റന്റ്സും വ്യാപാര ഇടപാടുകളോടനുബന്ധിച്ചുള്ളവയാണ് അവ വാണിജ്യ ആവശ്യത്തിനു വേണ്ടിയാണ് അല്ലെങ്കിൽ പേറ്റന്റുകളുടെ ഉപയോഗം എന്നു പറയുന്നത് തന്നെ വാണിജ്യ ആവശ്യത്തിനു വേണ്ടിയാണ് ഇന്റെലക്ച്വൽ പ്രോപ്പർട്ടികൾ എല്ലാം തന്നെ ഈ പൊതുവായ സംഗതി പങ്കുവെയ്ക്കുന്നുണ്ട് അതായത് ഇന്റെലക്ച്വൽ പ്രോപ്പർട്ടികൾ വ്യാപാര ആവശ്യത്തിനുവേണ്ടി ആണെന്നോ അല്ലെങ്കിൽ കച്ചവടത്തിൻറെ ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് എന്നോ പറയാവുന്നതാണ് ഉൽപന്നങ്ങളുടെയും സേവനങ്ങളുടെയും വിൽപ്പന വർദ്ധിപ്പിക്കാനും പ്രോത്സാഹിപ്പിക്കാനും വേണ്ടിയാണ് ട്രേഡ് മാർക്കുകൾ വന്നത് തന്നെ മുൻകാലങ്ങളിൽ ഉൽപ്പന്നങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പിന്നീടാണ് സേവനങ്ങളും കൂടെ അതിലേക്ക് കൂട്ടിച്ചേർക്കപ്പെട്ടത് കാരണം ട്രേഡ്മാർക്ക് നിലവിൽ വന്ന കാലത്ത് ഉൽപ്പന്നങ്ങൾ മാത്രമായിരുന്നു കേന്ദ്രീകരിച്ചിരുന്നത് എന്നാൽ പിന്നീട് സേവനങ്ങളും അതിൽ ഉൾപ്പെടാൻ തുടങ്ങി അതുകൊണ്ട് വ്യാപാരികൾ തങ്ങളുടെ ഉൽപ്പന്നങ്ങൾ തിരിച്ചറിയുന്നതിന് ബ്രാൻഡുകൾ ഉപയോഗിക്കാൻ തുടങ്ങി ഉല്പന്നങ്ങളും സേവനങ്ങളും തിരിച്ചറിയുന്നതിനു വേണ്ടി മാത്രമല്ല മറിച്ച് തങ്ങളുടെ വ്യാപാരം തന്നെ തിരിച്ചറിയുന്നതിനു വേണ്ടിയാണ് അപ്പോൾ ഒരു ട്രേഡ് മാർക്ക് എന്നു പറയുന്നത് ഒരു വ്യാപാരത്തെ അല്ലെങ്കിൽ അവരുടെ പേരിനെയാണ് തിരിച്ചറിയുന്നത് ആ പേരിൽ നിർവഹിക്കപ്പെടുന്ന എല്ലാ വ്യാപാരങ്ങളും വ്യാപാരസമുച്ചയമോ സ്ഥാപനമോ അല്ലെങ്കിൽ അവർ വിൽക്കുന്ന ഒരു ഉൽപ്പന്നമോ സേവനമോ എല്ലാം തിരിച്ചറിയുന്നതിനായി ട്രേഡ് മാർക്കുകൾ ഉപയോഗിക്കുന്നു ഇങ്ങനെ വരാൻ ഒരു കാരണം ഉണ്ട് ഒരു ചന്തയിൽ ധാരാളം ആളുകൾ ഒരേ ഉൽപ്പന്നമോ സേവനമോ വിൽപ്പനയ്ക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ആരുടെ ഉൽപന്നമാണ് ആരുടെ സേവനം ആണ് എന്ന് തിരിച്ചറിയുക ആവശ്യമാണ് മത്സരബുദ്ധിയോടെ കൂടി രംഗത്തുള്ളവരുടെ ക്വാളിറ്റിയുള്ള ഉല്പന്നങ്ങളും സേവനങ്ങളും പെട്ടെന്ന് തിരിച്ചറിയുവാൻ ട്രേഡ് മാർക്ക് ആവശ്യമാണ് ഉൽപ്പന്നത്തെയോ സേവനത്തേയോ പെട്ടെന്ന് തിരിച്ചറിയുവാൻ അതിനെ തനിമയുള്ളതാക്കുക യുണീക്കാക്കുക എന്നതാണ് എളുപ്പവഴി എന്ന് നിങ്ങൾ ഒരു പക്ഷേ പറയുമായിരിക്കും ശരിയാണ് അതാണ് നിങ്ങളുടെ ഉൽപ്പന്നങ്ങളും സേവനങ്ങളും തിരിച്ചറിയാനുള്ള ഏറ്റവും ഉറപ്പുള്ള ഒരു വഴി എന്നാൽ ചില അവസരങ്ങളിൽ തിരിച്ചറിയാൻ തക്കവിധത്തിൽ യുണീക്കാക്കുക എന്നുള്ളത് ദുഷ്കരമായിരിക്കും ഉദാഹരണത്തിന് ഒരു സേഫ്റ്റി പിന്നിൽ യുണീക്ക്നെസ്സ് അഥവാ തനിമ കൊണ്ടുവരിക എന്നത് അത്ര എളുപ്പമല്ല സേഫ്റ്റി പിന്നിൻറെ പ്രവർത്തന ധർമ്മത്തിൽ വ്യത്യാസം വരുത്തിക്കൊണ്ടോ അല്ലെങ്കിൽ തനിമയുള്ളതാക്കാൻ വേണ്ടി മാത്രം അത്ര വളരെ വ്യതിയാനങ്ങൾ കൊണ്ടുവന്നതു കൊണ്ടോ ആളുകൾക്ക് ആ ഉൽപ്പന്നത്തെ വേർതിരിച്ചറിയാൻ സാധിക്കണമെന്നില്ല അതേസമയം ട്രേഡ് മാർക്ക് കൊണ്ട് ആ ഉൽപ്പന്നത്തെ തിരിച്ചറിയാൻ സാധിക്കുകയാണെങ്കിൽ അതായിരിക്കും ഉൽപ്പന്നത്തിൻറെ യുണീക്ക്നെസ്സ് അഥവാ തനിമ ഉദാഹരണത്തിന് പേപ്പർ ക്ലിപ്പുകൾ ജെം ക്ലിപ്പുകൾ എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട് ജെം എന്ന് പറയുന്നത് അതിൻറെ ട്രേഡ് നെയിം ആണ് സാധാരണ ഉപയോഗം കൊണ്ട് ചിലപ്പോൾ ചില ഉൽപ്പന്നങ്ങൾക്ക് ട്രേഡ് നെയിം തന്നെ ജനറിക് നെയിം അതായത് സാധാരണ പേരായിട്ട് മാറാറുണ്ട് ഇവിടെ ജെം ക്ലിപ്പുകൾ എന്ന് പറയുന്നത് പേപ്പർ ക്ലിപ്പുകൾ ആണ് മറ്റൊന്നാണ് തെർമോസ് തെർമോസ് എന്നത് ട്രേഡ് നെയിം ആണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഫ്ളാസ്കുകളാണ് സെറോക്സ് എന്നത് സെറോക്സ് എന്ന ഫോട്ടോകോപ്പി മെഷീനിൽ നിന്നും പുറത്തുവരുന്ന ഉൽപന്നമാണ് ഇതും ട്രേഡ് നെയിം കൊണ്ട് അറിയപ്പെടുന്ന ഉൽപന്നത്തിന് ഉദാഹരണമാണ് വെൽക്രോ എന്നത് വീണ്ടും ഒരു ട്രേഡ് നെയിമാണ് അതിൻറെ ഉൽപ്പന്നം ആ പേരിൽ തന്നെയാണ് അറിയപ്പെടുന്നത് അതുകൊണ്ട് ട്രേഡ് നെയിമുകൾ മത്സര ബുദ്ധിയുള്ള ഉൽപ്പന്നങ്ങളെ തിരിച്ചറിയാനും വേർതിരിച്ചറിയനും സഹായിക്കുന്നു ട്രേഡ് മാർക്ക് എന്നു പറയുന്നത് ഉൽപ്പന്നങ്ങളെയും സേവനങ്ങളെയും തിരിച്ചറിയുന്നതിനുള്ള ഒരു അക്ഷരമോ ഒരു പേരോ ഒരു അടയാളമോ അങ്ങനെയുള്ള ഏതെങ്കിലും പ്രായോഗികമായ ഉപായം ആയിരിക്കും ട്രേഡ് മാർക്ക് നിർവചനം ഇങ്ങനെയാണ് ട്രേഡ് മാർക്ക് എന്നു പറയുന്നത് ഏറ്റവും ലളിതമായ വാക്കുകളിൽ പറയുകയാണെങ്കിൽ അതൊരു അടയാളമാണ് ഒരു അടയാളമാണ് എന്ന് പറയുമ്പോൾ ഒരു ചിത്രം എന്നതുപോലെ പ്രതീകാത്മകം ആയിരിക്കും അല്ലെങ്കിൽ ഒരു ബിസിനസ് സംരംഭത്തിൻറെ വിശേഷണമായി ചിത്രീകരിക്കാവുന്ന ഒരു ചിത്രം കണക്കെയുള്ള ഒന്നായിരിക്കും വളരെ പണ്ടുകാലം മുതൽക്കേ ഇത്തരം അടയാളങ്ങൾ നിലവിലുണ്ട് മാത്രമല്ല വളരെക്കാലം മുൻപുതന്നെ ബിസിനസ്സിൽ ഇത് ഉപയോഗപ്പെടുത്താനും തുടങ്ങിയിട്ടുണ്ട് ശിൽപ്പികൾ തങ്ങൾ വില്പനയ്ക്ക് വയ്ക്കുന്ന ഉൽപന്നങ്ങളിൻ്മേൽ തിരിച്ചറിയുന്നതിനു വേണ്ടി അടയാളങ്ങൾ ഇടാറുണ്ട് ഇപ്പോൾ പോലും നമ്മൾ കലാസൃഷ്ടികൾ നോക്കുകയാണെങ്കിൽ കലാകാരന്മാർ തങ്ങളുടെ കലാസൃഷ്ടികളുടെ അടിയിൽ അയാളുടെ പേര് ഒപ്പുവെക്കുന്നത് കാണാറുണ്ട് അതുപക്ഷേ ട്രേഡ് മാർക്കായി അർത്ഥമാക്കുന്നില്ല മറിച്ച് ആ കലാസൃഷ്ടി തൻറെ സൃഷ്ടിയാണെന്ന് അദ്ദേഹം അതിലൂടെ ലോകത്തോട് പറയുകയാണ് ഉൽപ്പന്നങ്ങളെ തിരിച്ചറിയുവാൻ ട്രേഡ് മാർക്കുകൾ ഉപയോഗിക്കാൻ തുടങ്ങിയത് അധികമായും മധ്യകാലഘട്ടത്തിൽ ആണ് മധ്യകാലഘട്ടത്തിൽ ആണല്ലോ ഉത്പാദനം വർധിക്കുന്നതും വ്യാപാരമേഖലയിൽ കിട മത്സരങ്ങൾ ആരംഭിക്കുന്നതും ഈ ഒരു സാഹചര്യമാണ് ഉൽപന്നങ്ങളേയും സേവനങ്ങളേയും വേർതിരിച്ചറിയുക എന്നത് ഒരു ആവശ്യം ആക്കി മാറ്റിയത് വ്യവസായവൽക്കരണവും ട്രേഡ് മാർക്കുകൾ ഉപയോഗിക്കാൻ തുടങ്ങിയതിൽ ഒരു പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട് മാർക്കറ്റുകളുടെ വളരെ പ്രത്യേകമായി മത്സരബുദ്ധിയോടു കൂടിയ ഉൽപ്പന്നങ്ങൾ വില്പനയ്ക്ക് വയ്ക്കുന്ന മാർക്കറ്റുകളുടെ വളർച്ച ഉൽപ്പന്നങ്ങളും സേവനങ്ങളും ഏതെങ്കിലും മാർഗത്തിൽ വളരെ എളുപ്പത്തിൽ തിരിച്ചറിയുക എന്നത് ആവശ്യമായ ഒരു സംഗതിയാക്കി മാറ്റി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തിരിച്ചറിയാനുള്ള ഒരു മാധ്യമം എന്ന് പറയുന്നത് അതിൻറെ ക്വാളിറ്റി ആകണമെന്നില്ല ഗുണനിലവാരം ആകണമെന്നില്ല നേരെമറിച്ച് ഗുണനിലവാരം ഇല്ലായ്മ അതിനെ തിരിച്ചറിയാനുള്ള ഒരു മാർഗമായി മാറിയേക്കാം എന്നാൽ തന്നെയും ഉപഭോക്താക്കൾക്ക് അത് തിരിച്ചറിയാൻ ഒരു അടയാളം ആവശ്യമാണ് നിങ്ങൾ ചിലപ്പോൾ ശ്രദ്ധിച്ചു കാണും ചില അടയാളങ്ങൾ അനേക വർഷത്തെ കച്ചവട പാരമ്പര്യം കൊണ്ട് ജനസമ്മതിയും മതിപ്പും നേടുന്നത് അങ്ങനെ വരുമ്പോൾ ട്രേഡ് മാർക്ക് തന്നെ ഗുണമേന്മയുടെ അടയാളം ആയി മാറുകയാണ് ട്രേഡ് മാർക്ക് ഉടമസ്ഥാവകാശത്തോട് കൂട്ടി ഘടിപ്പിച്ചിരുന്നു ഉടമസ്ഥാവകാശം എന്ന് നമ്മൾ പറയുമ്പോൾ അർത്ഥമാക്കുന്നത് ഉൽപ്പന്നങ്ങളും സേവനങ്ങളും തിരിച്ചറിയാനുള്ള കഴിവ് ഉണ്ടാകുന്നത് അല്ലെങ്കിൽ വരുന്നത് ഒരു പ്രത്യേക ഉണ്മയിൽ നിന്ന് അല്ലെങ്കിൽ സത്തയിൽ നിന്ന് ആണെന്നാണ് നമുക്കറിയാം പരമ്പരാഗതമായിത്തന്നെ ആളുകൾ തങ്ങൾ വിൽപ്പനയ്ക്ക് വെക്കുന്ന ഉൽപ്പന്നങ്ങളും സേവനങ്ങളും തിരിച്ചറിയപ്പെടണം എന്ന കാര്യത്തിൽ കരുതൽലുള്ളവരായിരുന്നു ഉദാഹരണത്തിന് കാലിവളർത്തലും കച്ചവടവുമായി കഴിഞ്ഞിരുന്ന ആളുകൾ അവർ അവരുടെ കാലികളെ അടയാളപ്പെടുത്തിയിരുന്നു അവ നഷ്ടപ്പെടുകയാണെങ്കിൽ തിരിച്ചറിയുവാനും തിരികെ അവകാശപ്പെടുവാനുമായി അതിൻറെ ഉടമസ്ഥർ അവയെ പ്രത്യേക അടയാളങ്ങളാൽ അടയാളപ്പെടുത്തുമായിരുന്നു കടൽമാർഗ്ഗം കപ്പലിൽ ചരക്കുകൾ കയറ്റി അയച്ച് വില്പന നടത്തിയിരുന്നവർ തങ്ങളുടെ ഉത്പന്നങ്ങളെ പ്രത്യേക രീതിയിൽ അടയാളപ്പെടുത്തുമായിരുന്നു ഏതെങ്കിലും വിധത്തിൽ കപ്പൽ അപകടത്തിൽപ്പെട്ട് തകരുകയാണെങ്കിൽ തങ്ങളുടെ ചരക്കുകളെ തിരിച്ചറിയുവാൻ ഈ അടയാളങ്ങൾ അവരെ സഹായിക്കുകയും ചെയ്തിരുന്നു ഈ വിധത്തിലാണ് ആദ്യകാലങ്ങളിൽ വ്യാപാരികളും വിൽപ്പനക്കാരും തങ്ങൾ വിൽപ്പനയ്ക്ക് വെക്കുന്ന ഉൽപ്പന്നങ്ങളിൽ ഒരു നിയന്ത്രണം ഉണ്ടായിരിക്കേണ്ടതിന് അവയിന്മേൽ പ്രത്യേക അടയാളങ്ങൾ ഇട്ട് വേർതിരിച്ചിരുന്നത് ആദ്യകാലങ്ങളിൽ ഈ അടയാളങ്ങൾ ഉപയോഗിച്ചിരുന്നത് ഉത്തരവാദിത്വവും ആയി ബന്ധിച്ചായിരുന്നു ഉത്തരവാദിത്വം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഉൽപ്പന്നങ്ങൾ വിൽപ്പനയ്ക്ക് വെച്ചതിനുശേഷം ആ ഉൽപ്പന്നങ്ങൾ ഗുണപരമായി തൃപ്തികരമല്ലെങ്കിൽ ചന്ത നടത്തുന്ന ആളുകൾക്ക് ഉൽപ്പന്നങ്ങൾ ആരുടേതാണെന്ന് തിരിച്ചറിയുവാൻ ഗുണനിലവാരമില്ലാത്ത ഉൽപ്പന്നങ്ങൾ ആരുടേതാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് തിരിച്ചറിയുന്ന അടയാളങ്ങൾ ഉപയോഗിച്ചിരുന്നത് അതായത് വ്യാപാരസ്ഥാപനങ്ങൾ ആദ്യകാലഘട്ടങ്ങളിൽ ഉൽപന്നങ്ങളെ അടയാളപ്പെടുത്തുന്ന ഈ മാർക്കുകൾ ഉപയോഗിച്ചിരുന്നത് ആ ഉൽപ്പന്നങ്ങളുടെ ഉത്തരവാദിത്വം ആരുടേതാണ് എന്ന് മനസ്സിലാക്കുന്നതിന് ആയിരുന്നു അല്ലെങ്കിൽ ഉൽപ്പന്നങ്ങൾ ആരുടേതാണ് എന്ന് അറിയുന്നതിനായിരുന്നു അതിനാൽ ആരെങ്കിലും തൃപ്തികരമല്ലാത്ത അല്ലെങ്കിൽ ഗുണനിലവാരമില്ലാത്ത വസ്തുക്കൾ വിൽക്കുകയാണെങ്കിൽ വ്യാപാര സ്ഥാപനങ്ങൾക്ക് ആ വസ്തുക്കളുടെ ഉടമസ്ഥനെയോ അല്ലെങ്കിൽ നിർമാതാവിനെയോ കണ്ടെത്തുവാനും അവരുടെ മേൽ പിഴ ചുമത്തവാനോ അല്ലെങ്കിൽ ഗുണനിലവാരമില്ലാത്ത ഉൽപ്പന്നം മാറ്റി ഗുണനിലവാരമുള്ള മറ്റൊരു ഉല്പന്നം നൽകുവാനോ അല്ലെങ്കിൽ ഉൽപ്പന്നത്തിൻറെ വില തിരികെ നൽകുവാനോ എല്ലാം ആവശ്യപ്പെടുമായിരുന്നു ഇത്രയുമാണ് ആദ്യകാലങ്ങളിൽ ട്രേഡ് മാർക്കുകൾ ഉരുത്തിരിഞ്ഞുവന്നത് ഗുണനിലവാരമില്ലാത്ത ഉത്പന്നങ്ങളുടെ മേലുള്ള ഉത്തരവാദിത്വം ആരോപിക്കുന്നതിന് വേണ്ടിയായിരുന്നു കുറെ കാലങ്ങൾക്ക് ശേഷമാണ് ട്രേഡ് മാർക്കുകളുടെ മേൽ ഗുണനിലവാരം ക്വാളിറ്റി ആരോപിക്കാൻ തുടങ്ങിയത് ഇപ്പോൾ ഗുണനിലവാരം ഒരു അടയാളമാണ് ഈ അടയാളം ഉപഭോക്താവിനോട് ധൈര്യപൂർവ്വം ഉൽപ്പന്നം വാങ്ങുന്നതുമായി മുന്നോട്ട് പോയിക്കൊള്ളുവാൻ പറയും അതുകൊണ്ട് ഗുണനിലവാരം ആണ് ഒരാളെക്കൊണ്ട് വാങ്ങണമോ വേണ്ടയോ എന്ന തീരുമാനം എടുപ്പിക്കുന്നത് വിൽക്കുന്ന ഉൽപന്നം ഗുണനിലവാരം ഉള്ളതാണെങ്കിൽ പ്രത്യേകത ട്രേഡ് മാർക്കുള്ള ആ ഉൽപ്പന്നത്തിന്മേലുള്ള ഒരു വിശ്വാസ്യതയ്ക്ക് അത് കാരണമാകുന്നു അപ്പോൾ ആദ്യകാലങ്ങളിൽ ട്രേഡ് മാർക്കുകൾ ലയബിലിറ്റിയുടെ അഥവാ ഉത്തരവാദിത്വത്തിൻറെ അടയാളം ആയിരുന്നുവെങ്കിൽ കാലക്രമേണ ഗുണമേന്മയുടെ അടയാളമായി അറിയപ്പെടാൻ തുടങ്ങി ബിസിനസ്സ് വളരാൻ തുടങ്ങി വൻതോതിലുള്ള മാർക്കറ്റുകൾ ആരംഭിച്ചു ബ്രാൻഡിംഗും മാർക്കറ്റിംഗും അഡ്വർടൈസിംഗും എല്ലാം ട്രേഡ് മാർക്കുള്ള ബ്രാൻഡുകൾ അനേകം സ്ഥലങ്ങളിൽ എളുപ്പത്തിൽ വ്യാപിക്കുന്നതിന് കാരണമായി അങ്ങനെ ആയപ്പോൾ ട്രേഡ് മാർക്കിന് രണ്ടാമതൊരു സംഗതി ഗുണമെന്നോ സവിശേഷതയെന്നോ ഒക്കെ പറയാവുന്ന ഒന്നുകൂടെ കൂട്ടിച്ചേർക്കപ്പെട്ടു അതായത് ട്രേഡ് മാർക്കുകൾ ടൈപ്പ് 2 റെപ്യൂട്ടേഷൻ ആയി മാറി ഇപ്പോൾ നിങ്ങൾ നൈക്കീയുടെ ഷൂ വാങ്ങുന്നു അല്ലെങ്കിൽ കൊക്കോകോള വാങ്ങുന്നു കാരണം ബ്രാൻഡുകൾക്ക് മതിപ്പും ജനസമ്മതിയും ഉണ്ട് അവ നിങ്ങളോട് അവയെക്കുറിച്ചുള്ള വളരെയധികം വിവരങ്ങൾ പറഞ്ഞു തരുന്നു ഇപ്പോൾ നിങ്ങൾ കൊക്കകോള വാങ്ങുകയാണെങ്കിൽ നിങ്ങൾക്കറിയാം 100 വർഷത്തിലധികം പ്രവർത്തന പാരമ്പര്യമുള്ള കൊക്കകോളയുടെ ഉൽപ്പന്നമാണ് അത് എന്നും അവർ അതിനോട് കൂടെ നിൽക്കുമെന്നും അല്ലെങ്കിൽ നിങ്ങൾ നൈക്കീയുടെ ഒരു ഷൂ വാങ്ങുകയാണെങ്കിൽ അല്ലെങ്കിൽ കായികരംഗത്തേക്ക് ആവശ്യമായ എന്തെങ്കിലും ഒരു ഉൽപ്പന്നം വാങ്ങുകയാണെങ്കിൽ നിങ്ങൾക്ക് അറിയാം അനേക വർഷത്തെ പാരമ്പര്യമുള്ള നൈക്കീയുടെ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ് ഡിപ്പാർട്ട്മെൻറുംResearch Development അതിൻറെ ഡിസൈൻ ഡിപ്പാർട്ട്മെൻറും ഉൽപ്പന്നത്തോടൊപ്പം നിൽക്കുമെന്നും ആ കമ്പനിക്ക് അതിൻറെ ബ്രാൻഡ് നെയ്മിലൂടെ കൈമാറപ്പെടുന്ന വളരെ വലിയ മതിപ്പും ജനസമ്മതിയും ഉണ്ടെന്നും ഇത് വാസ്തവത്തിൽ ബ്രാൻഡുകളെ അതിൽതന്നെ വളരെ വലിയൊരു ആസ്തിയാക്കി മാറ്റുന്നു ഇങ്ങനെയാണ് മുതൽമുടക്കിലൂടെ ദൃഷ്ടിഗോചരമല്ലാത്ത ആസ്തികൾ ഉണ്ടാകുന്നത് ബ്രാൻഡുകൾ ദൃഷ്ടിഗോചരമല്ലാത്ത ആസ്തികൾ ആണ് അതിലേക്കുള്ള മുതൽമുടക്ക് ദീർഘകാലമായി ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് ട്രേഡ് മാർക്കുകൾ ടൈപ്പ് 2 റെപ്യൂട്ടേഷൻ ആണ് ഇതാണ് മിക്കവാറും എല്ലാ ബ്രാൻഡുകളുടെയും സ്ഥിതി കാരണം എല്ലാ ബ്രാൻഡുകളും പരിശ്രമിക്കുന്നത് ജനസമ്മതി ഉണ്ടാക്കിയെടുക്കുവാൻ ആണ് ട്രേഡ് മാർക്ക് ജനസമ്മതി ഉണ്ടാക്കിയെടുക്കുന്നതിൽ വളരെ വലിയൊരു പങ്കു വഹിക്കുന്നു മറ്റൊരു ഘടന നമ്മൾ കാണുന്നത് അത് ഉപഭോക്താക്കൾ ബ്രാൻഡുകളുടെ പേരിൽ തങ്ങളെ തന്നെ വ്യതിരിക്തമാക്കുന്നത് ആണ് അങ്ങനെയാകുമ്പോൾ ഒരു ബ്രാൻഡോ ഒരു ട്രേഡ് മാർക്കോ ഒരു ഉപഭോക്താവിനെ തിരിച്ചറിയാനുള്ള ഉപാധിയാകുന്നു ഉദാഹരണത്തിന് നമ്മൾ ഒരു വ്യക്തിയെ ആപ്പിൾ ഫാൻ ബോയ് എന്ന് പറയുകയാണെങ്കിൽ അല്ലെങ്കിൽ അയാൾ ആപ്പിളിൻറെ ഉൽപ്പന്നങ്ങൾ മാത്രമേ ഉപയോഗിക്കുന്നുള്ളു എങ്കിൽ ആ വ്യക്തി ആഗ്രഹിക്കുന്നത് അയാൾ ഒരു പ്രത്യേക ബ്രാൻഡിൻറെ ഉത്പന്നം മാത്രം ഉപയോഗിക്കുന്ന വ്യക്തിയായി അറിയപ്പെടാനാണ് അപ്പോൾ ആളുകൾ തങ്ങളെ തന്നെ ചില ട്രേഡ് മാർക്കുകളാൽ അറിയപ്പെടാൻ ആഗ്രഹിച്ച് തുടങ്ങുമ്പോൾ ചില ആളുകൾ പറയുന്നത് ചില ട്രേഡ് മാർക്കുകളിലൂടെ ഒരു പ്രത്യേക സംസ്ക്കാരമോ പാരമ്പര്യമോ രൂപപ്പെട്ടു വരികയാണ് എന്നാണ് ഇപ്പോൾ നമ്മൾ ട്രേഡ് മാർക്കുകളുടെ പ്രത്യേകമായ ഒരു ഘട്ടത്തിൽ നിൽക്കുകയാണ് ലയബിലിറ്റി ക്വാളിറ്റി റെപ്യൂട്ടേഷൻ ഇവ മാത്രമല്ല ട്രേഡ് മാർക്കുകളുടെ ദൌത്യം മറിച്ച് മറ്റൊരു ദൌത്യം കൂടി കൂട്ടിച്ചേർക്കപ്പെട്ടിരിക്കുന്നു വ്യക്തികളെ ട്രേഡ് മാർക്കിനാൽ തിരിച്ചറിയുവാൻ സാധിക്കുക എന്ന ദൌത്യം ഉദാഹരണത്തിന് ഒരു വ്യക്തി മോണ്ട് ബ്ലാങ്ക് പെൻ ഉപയോഗിക്കുന്ന ആളാണെങ്കിൽ അദ്ദേഹം തന്നെക്കുറിച്ച് ഒരു പ്രത്യേക സങ്കല്പം മറ്റുള്ളവർക്ക് നൽകുവാൻ ആഗ്രഹിക്കുന്നു അദ്ദേഹത്തിൻറെ അനന്യതയെ കുറിച്ച് പറയുമ്പോൾ ആ പേന അദ്ദേഹത്തിൻറെ ഒരു ഭാഗമാകുവാൻ അദ്ദേഹം ആഗ്രഹിക്കുന്നു ഫെറാറി വണ്ടികളുടെ കാര്യത്തിലാണെങ്കിലും ഒരാൾ അതു പോലെ ഒരു കാർ വാങ്ങി ഉപയോഗിക്കുകയാണെങ്കിൽ ആ കാർ അദ്ദേഹത്തിൻറെ തനിമയുടെ ഒരു ഭാഗമായി മാറുന്നു എല്ലാ കമ്പനികളും ആഗ്രഹിക്കുന്നത് ഇതുതന്നെയാണ് എല്ലാ കമ്പനികളും ഈ ഒരു ഘട്ടത്തിലേക്ക് എത്തി നിൽക്കുവാൻ ആഗ്രഹിക്കുന്നു പരിശ്രമിക്കുന്നു നിങ്ങളുടെ ബ്രാൻഡ് നെയിമിനോ ട്രേഡ് മാർക്കിനോ നിങ്ങളുടെ കസ്റ്റമറുടെ തനിമയുടെ ഭാഗമാകാൻ സാധിക്കുകയാണെങ്കിൽ അതിനർത്ഥം അയാൾ നിങ്ങൾക്ക് വേണ്ടി പരസ്യം നൽകുന്ന ആളായി മാറുകയാണ് എന്നാണ് ഇതിനെയാണ് ബ്രാൻഡ് ഇവാഞ്ചലിസം എന്ന് പറയുന്നത് അതായത് ഉപഭോക്താക്കൾ തന്നെ ഉൽപ്പന്നത്തിൻറെ അല്ലെങ്കിൽ കമ്പനിയുടെ പ്രതിനിധികൾ ആകുന്ന അഥവാ അംബാസഡർ ആകുന്ന അവസ്ഥ നമ്മൾ ഇതുവരെ കാണുകയായിരുന്നു ട്രേഡ് മാർക്കുകൾ തൃപ്തികരമല്ലാത്ത ഗുണനിലവാരമില്ലാത്ത ഉൽപ്പന്നങ്ങളുടെ ഉത്തരവാദിത്വം ആരോപിക്കുക എന്ന ദൌത്യത്തിൽ നിന്നും പിന്നീട് അവ ഉൽപ്പന്നങ്ങളുടെ ഗുണനിലവാരം ദ്യോതിപ്പിക്കുന്ന അടയാളങ്ങളായി പിന്നീട് ഉൽപ്പന്നങ്ങളുടെ ഇവിടെ അല്ലെങ്കിൽ സ്ഥാപനത്തിൻറെ ജനപ്രീതിയും ജനസമ്മതിയും ദ്യോതിപ്പിക്കുന്ന അടയാളങ്ങളായി മാറി ഇപ്പോൾ പ്രത്യേകിച്ചും ചില ട്രേഡ് മാർക്കുകൾ ഉപഭോക്താക്കളുടെ തനിമയുടെ ഭാഗമായി മാറിയിരിക്കുന്നു ഉൽപ്പന്നത്തിൻറെയോ സേവനത്തിൻറെയോ ഉത്ഭവത്തെ കാണിക്കുവാൻ വ്യാപാരികൾ ട്രേഡ് മാർക്കുകൾ ഉപയോഗിക്കാൻ തുടങ്ങിയ പതിനാറാം നൂറ്റാണ്ടു മുതലാണ് അവയ്ക്ക് നിയമപരമായ സംരക്ഷണം ലഭിക്കാൻ തുടങ്ങിയത് അതിൻറെ പ്രധാനപ്പെട്ട ഉത്കണ്ഠയും താൽപര്യവും ആളുകളെ ചതിക്കപ്പെടുന്നതിൽനിന്നും സംരക്ഷിക്കുക എന്നതായിരുന്നു ഇപ്പോൾ ഒരു വ്യാപാരി തന്റെ സ്ഥാപനത്തെ സൂചിപ്പിക്കുന്ന അടയാളം ഉത്പന്നത്തിന്മേൽ ഉപയോഗിക്കുകയാണെങ്കിൽ അദ്ദേഹം അതിലൂടെ സൂചിപ്പിക്കുന്നത് ഉൽപ്പന്നം തൻറെ സ്ഥാപനത്തിൽ ഉത്പാദിപ്പിക്കപ്പെട്ടതാണ് എന്നാണ് ഉപഭോക്താക്കൾക്ക് ട്രേഡ് മാർക്കിലൂടെ ഉൽപ്പന്നത്തിൻറെ ഉറവിടം അറിയാൻ സാധിക്കുന്നത് കൊണ്ട് വ്യാപാരിക്ക് മനസ്സിലാക്കാൻ സാധിക്കും തൻറെതെന്ന പേരിൽ ഏതെങ്കിലും ആളുകൾ അവരുടെ ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നുണ്ടോ എന്ന് ട്രേഡ് മാർക്കിലൂടെ ഉൽപ്പന്നങ്ങളുടെ തെറ്റായ അവതരണങ്ങളും തെറ്റായ അറിവുകളും ഉണ്ടാകുന്നത് തടയാൻ സാധിക്കുന്നു കാരണം വ്യാപാരിക്ക് പറയാൻ സാധിക്കും എൻറെ ഉൽപ്പന്നം ഒരു പ്രത്യേക ഗുണനിലവാരത്തോടുകൂടിയാണ് വരുന്നത് ഈ പ്രത്യേക അടയാളമാണ് എൻറെ ഉൽപ്പന്നത്തെ അടയാളപ്പെടുത്തുന്നത് എന്ന് പത്തൊമ്പതാം നൂറ്റാണ്ടോടുകൂടി ഒരു വ്യാപാരി ഉപയോഗിക്കുന്ന അതേ അടയാളങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹം വിൽക്കുന്ന ഉൽപ്പന്നത്തിന് സമാനമായ ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നവരെ റിലീഫ് ഓഫ് പാസിംഗ് ഓഫ് എന്ന നിയമത്തിലൂടെ തടയുവാൻ സാധിക്കുന്ന സംവിധാനം നിലവിൽ വന്നു പാസിംഗ് ഓഫ് എന്ന് പറഞ്ഞാൽ ലളിതമായ ഭാഷയിൽ ഏതെങ്കിലും ആളുകൾ അവരുടെ ഉൽപ്പന്നങ്ങൾ നിങ്ങളുടെ ഉൽപ്പന്നങ്ങളുടെ പേരിൽ വിൽപ്പന നടത്തുന്നതാണ് അതിനു നിങ്ങൾക്കുള്ള പരിഹാരമാണ് റിലീഫ് ഓഫ് പാസിംഗ് ഓഫ് യുകെയിൽ ഉള്ള ചാൻസെറി കോടതിയാണ് ഈ നിയമം കൊണ്ടുവന്നത് ട്രേഡ് മാർക്കുകളുടെ സംരക്ഷണത്തിനായി ഏറ്റവും ആദ്യം നിലവിൽ വന്ന റിലീഫ് ആണ് പാസിംഗ് ഓഫ് എന്നത് രജിസ്റ്റർ ചെയ്യാത്ത ട്രേഡ് മാർക്കുകളുടെ സംരക്ഷണത്തിനായി അത് ഇന്നും നിലനിൽക്കുന്നുണ്ട് വർഷങ്ങളായുള്ള വ്യാപാര പ്രവർത്തനങ്ങളിലൂടെ ഉരുത്തിരിഞ്ഞുവന്ന വ്യാപാരിയുടെ ജനസമ്മതിയോടും മതിപ്പിനോടും കൂടെ റിലീഫ് ഓഫ് പാസിംഗ് ഓഫ് ബന്ധിക്കപ്പെട്ടിരിക്കുന്നു ഇവിടെയും ശ്രദ്ധ ഉൽപ്പന്നങ്ങളുടെ തെറ്റായ അവതരണങ്ങൾ തടയുക എന്നതായിരുന്നു കാരണം റിലീഫ് ചെയ്യുന്നത് ഒരു വ്യാപാരിയുടെ ഉൽപ്പന്നങ്ങളോട് സമാനമായ തെറ്റായ അവതരണങ്ങൾ നടത്തുന്ന വ്യക്തികളെ തടയുക എന്നതാണ് കാരണം വ്യാപാരിക്ക് വർഷങ്ങളായുള്ള പ്രവർത്തനത്തിലൂടെ ഉരുത്തിരിഞ്ഞു വന്നിരിക്കുന്ന ജനസമ്മതിയും മതിപ്പും ഉണ്ട് അതാണ് മറ്റേയാൾ ദുരുപയോഗം ചെയ്യുന്നത് പത്തൊമ്പതാം നൂറ്റാണ്ടു വരെ ട്രേഡ് മാർക്കുകൾ trademarks രജിസ്റ്റർ ചെയ്തിരുന്നില്ല ഉപയോഗത്തിലൂയാണ് ഈ മാർക്കുകൾ ജനസമ്മതിയും മതിപ്പും കൈവരിക്കുന്നത് അത് വ്യാപാരി വളരെക്കാലമായി മാർക്കറ്റിൽ ഉപയോഗിക്കുന്നു എന്നതിൻറെ പേരിലും അദ്ദേഹത്തിന് വളരെ വലിയ ജനസമ്മതി ഉണ്ട് എന്നതിൻറെ പേരിലും മാത്രം വേറൊരാളെ ഇതേ മാർക്കുകളോ സമാനമായ മാർക്കുകളോ ഉപയോഗിക്കുന്നതിൽ നിന്നും തടയാൻ സാധിക്കുമായിരുന്നു ഇതിന് അനുവദിക്കുന്ന റിലീഫ് ആണ് ആണ് റിലീഫ് ഓഫ് പാസിംഗ് ഓഫ് രജിസ്ട്രേഷൻ ഏകദേശം 1875 ഓടുകൂടിയാണ് ഇംഗ്ലണ്ടിൽ നിലവിൽ വന്നത് നമ്മൾ പരിശോധിക്കുകയും പഠിക്കുകയും ചെയ്യുന്ന ട്രേഡ് മാർക്കിൻറെ ചരിത്രം എന്ന് പറയുന്നത് ഇംഗ്ലണ്ടിൽ ഉരുവായ ട്രേഡ് മാർക്ക് ചരിത്രമാണ് കാരണം ഇന്ത്യയിൽ ആദ്യമായി പ്രയോഗത്തിൽ വന്ന ആക്ട് ബ്രിട്ടീഷ് ഇറക്കുമതിയായ ഒരു ആക്ടാണ് പേറ്റൻറ് ലോ യുടെ കാര്യത്തിൽ നമ്മൾ കണ്ടത് പോലെ തന്നെ ഇന്ത്യൻ ട്രേഡ് മാർക്ക് ലോയും ബ്രിട്ടീഷ് നിയമ സംഹിതയിൽ നിന്നാണ് അതുകൊണ്ട് 1875 കൂടിയാണ് രജിസ്ട്രേഷൻ നിലവിൽ വന്നത് അത് ഇതുവരെയും രജിസ്ട്രേഷൻ ഉണ്ടായിരുന്നില്ല എല്ലാ ട്രേഡ് മാർക്കുകളും തന്നെ രജിസ്റ്റർ ചെയ്യാത്തവയായിരുന്നു അങ്ങനെ രജിസ്റ്റർ ചെയ്യാത്ത മാർക്കുകൾ സംരക്ഷിക്കാനുള്ള വഴിയായിരുന്നു റിലീഫ് ഓഫ് പാസിംഗ് ഓഫ് മറ്റൊന്നുമല്ല കോടതിയെ സമീപിച്ചു നമ്മുടെ ഉൽപ്പന്നത്തിന് സമാനമായ ഉൽപ്പന്നം വേറൊരാൾ വിൽപ്പനയ്ക്ക് വെക്കുന്നു എന്ന് പരാതിപ്പെടുകയാണ് കോടതിയോട് ആ വ്യക്തിയെ തടയുവാൻ ആവശ്യപ്പെടുന്നു ഇവിടെ പരാതിക്കാരൻ അവകാശപ്പെടുന്നത് തൻറെ എതിരാളി തൻറെ ഉൽപ്പന്നത്തിൻറെ തെറ്റായ അവതരണം മാർക്കറ്റിൽ എത്തിച്ചുകൊണ്ട് ഉപഭോക്താക്കളെ ചതിക്കുകയാണ് എന്നാണ് ചതി ചതിക്കപ്പെടുന്ന അല്ലെങ്കിൽ തെറ്റിദ്ധരിക്കപ്പെടുന്ന വിധത്തിലുള്ള സാമ്യം ആളുകൾ ചതിക്കപ്പെടുന്ന അവസ്ഥ ഇതൊക്കെ തന്നെയാണ് ട്രേഡ് മാർക്ക് നിയമങ്ങളുടെ കേന്ദ്ര സ്ഥാനത്ത് നിൽക്കുന്നത് ട്രേഡ് മാർക്ക് ഉറവിടത്തെയോ ഉൽഭവത്തെയോ സംബന്ധിച്ച് ചതിയോ അല്ലെങ്കിൽ ആകെ കുഴഞ്ഞു മറിഞ്ഞ അവസ്ഥയോ വിഭ്രാന്തി ഉണ്ടെന്ന് വരികിൽ ട്രേഡ് മാർക്ക് നിയമം അതിൽ ഇടപെടുന്നു ട്രേഡ് മാർക്ക് നിയമം പഠിക്കുമ്പോൾ രണ്ടു കാര്യങ്ങളാണ് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് അതായത് ഉൽപ്പന്നങ്ങളും സേവനങ്ങളും ഉപഭോക്താക്കളെ വഞ്ചിക്കുമ്പോൾ വിഭ്രാന്തിയോ വിഭ്രാന്തിക്ക് സമാനമായ അവസ്ഥയോ ഉപഭോക്താക്കളിൽ സൃഷ്ടിക്കുമ്പോൾ ട്രേഡ് മാർക്ക് ഹോൾഡർക്ക് ആളുകളെ ചതിക്കുകയോ അതിന് സമാനമായ അവസ്ഥകൾ സൃഷ്ടിക്കുകയോ ചെയ്യുന്ന ഉൽപ്പന്നങ്ങളെ കമ്പോളത്തിൽ വിൽക്കുന്നത് തടയുവാൻ ട്രേഡ് മാർക്ക് നിയമം അനുമതി നൽകുന്നു ചതിയിലേക്ക് നയിക്കുന്ന സാമ്യം അല്ലെങ്കിൽ വിഭ്രാന്തി ഉണർത്തുന്ന അവസ്ഥ ഇവ രണ്ടുമാണ് വ്യാപാരിക്ക് റിലീഫ് അനുവദിക്കുമ്പോൾ കണക്കിലെടുക്കുന്ന രണ്ട് കാര്യങ്ങൾ എന്തിനാണ് ട്രേഡ് മാർക്കുകളെ സംരക്ഷിക്കുന്നത് ട്രേഡ് മാർക്കുകൾ വിവിധ ദൌത്യങ്ങൾ നിർവഹിക്കുന്നു എന്ന് നമ്മൾ കാണുകയുണ്ടായി അതിൻറെ തുടക്കകാലത്ത് ആദ്യത്തെ കുറെ കാലത്തേക്ക് ലയബിലിറ്റി ചുമത്തുന്നതായിരുന്നു ഇവയുടെ ദൌത്യം പിന്നീട് ഉൽപ്പന്നത്തിൻറെ ഗുണമേന്മയാണ് ഇവയിലൂടെ മനസ്സിലാക്കിയിരുന്നത് പിന്നീട് അവ ജനസമ്മതിയും മതിപ്പും സൂചിപ്പിക്കുന്ന സൂചകങ്ങളായി പിന്നെ ഒരു ഘട്ടത്തിൽ ഉപഭോക്താക്കൾ തങ്ങളെത്തന്നെ പ്രത്യേക ബ്രാൻഡ് നെയിം കൊണ്ടും ട്രേഡ് മാർക്ക് കൊണ്ടും തിരിച്ചറിയുന്ന ഒരു പ്രത്യേക സംസ്കാരം വളർന്നു വന്നു അതായത് ഏതെങ്കിലും ഒരു പ്രത്യേക ബ്രാൻഡിനെ ഉപഭോക്താക്കൾ സ്ഥിരമായി പിന്തുടരുകയും അത് മാത്രം ഉപയോഗിക്കുകയും ചെയ്യുന്ന അവസ്ഥ ട്രേഡ് മാർക്ക് ഉത്ഭവിച്ചത് ഒരു പ്രത്യേക വ്യാപാരിയുടെ ഉൽപ്പന്നത്തെ തിരിച്ചറിയുന്നതിനു വേണ്ടിയായിരുന്നു ട്രേഡ് മാർക്കുകളുടെ ദൌത്യം ഉൽപ്പന്നങ്ങളുടെ ഉടമസ്ഥനെ തിരിച്ചറിയുക എന്നതായിരുന്നു ആ ദൌത്യം ഇന്നും അങ്ങനെ തന്നെ തുടരുന്നു പിന്നീട് നമ്മൾ കണ്ടു വ്യാപാരി ട്രേഡ് മാർക്ക് ദീർഘകാലം ഉപയോഗിക്കുക വഴി ആ ഉൽപ്പന്നത്തിൻറെ ഗുണമേന്മയും അത് ശരിയായ വിധത്തിൽ പ്രവർത്തിക്കും എന്നുള്ള ഒരു ഉറപ്പും ജനമനസ്സുകളിൽ ഇടംപിടിക്കുന്നു എന്ന് കാരണം വ്യാപാരിക്ക് ജനസമ്മതിയും മതിപ്പും ഉണ്ട് വ്യാപാരിയും ആഗ്രഹിക്കുന്നുണ്ട് ഉൽപ്പന്നങ്ങൾ ആളുകൾ സ്ഥിരമായി വാങ്ങണമെന്ന് ഒരു ബിസിനസ് അഥവാ വ്യാപാരം എന്ന് പറയുന്നത് ഉൽപ്പന്നങ്ങളും സേവനങ്ങളും ദീർഘകാലമായി വിൽപ്പനയ്ക്ക് വെക്കുന്ന ഒരു സ്ഥാപനം എന്നതാണ് ഈ സ്ഥാപനം ദീർഘകാലം നിലനിൽക്കണമെങ്കിൽ അതിൻറെ ഉൽപ്പന്നങ്ങൾക്കും സേവനങ്ങൾക്കും ഗുണമേന്മയും ഒരു തരത്തിലുള്ള ഉറപ്പും ഉണ്ടായിരിക്കേണ്ടത് അത്യാവശ്യമാണ് ഒരു വ്യാപാരത്തിൽ എപ്പോഴും പരസ്യങ്ങൾക്കു വേണ്ടിയും മുതൽമുടക്കുന്നുണ്ടായിരിക്കും മാർക്കറ്റിങ്ങിന്നുവേണ്ടി മുടക്കുന്ന പണമത്രയും വ്യാപാരത്തിൻറെ അല്ലെങ്കിൽ സ്ഥാപനത്തിൻറെ ജനസമ്മതിയും മതിപ്പും ഉയർത്തുന്നതിനായി ഉപയോഗിക്കപ്പെടുന്നു എന്നുള്ളതാണ് വാസ്തവം ഉദാഹരണത്തിന് നമുക്ക് രണ്ട് വ്യാപാരികൾ തമ്മിലുള്ള തർക്കം ഒന്നു ശ്രദ്ധിക്കാം ട്രേഡ് മാർക്ക് ഹോൾഡറുടെ പരാതി ഇതാണ് അതായത് മറ്റേയാൾ തൻറെ ട്രേഡ് മാർക്കിന്മേൽ കടന്നു കയറി എന്ന് ഇപ്പോൾ ട്രേഡ്മാർക്ക് ഹോൾഡർ കോടതിമുമ്പാകെ കേസ് ഫയൽ ചെയ്യുന്നത് മറ്റെയാളെ തൻറെ ട്രേഡ് മാർക്ക് എടുത്തു ഉപയോഗിക്കുന്നതിൽ നിന്നും തടയണമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കും ഇതുകൂടാതെ മറ്റു പല റിലീഫുകളും അയാൾക്ക് കോടതിയിൽ അവകാശപ്പെടാൻ ഉണ്ടായിരിക്കാം മിക്കവാറും എല്ലാ കേസുകളിലും ട്രേഡ്മാർക് ഹോൾഡർ പറയും അദ്ദേഹം എന്തുമാത്രം പണവും സമയവും അധ്വാനവും ആണ് മാർക്കറ്റിംഗിനും അഡ്വർടൈസിംഗിനും വേണ്ടി ചെലവഴിച്ചത് എന്ന് അതുകൊണ്ടാണ് ട്രേഡ് മാർക്കുകൾ അവയുടെ ജനസമ്മതിയും മതിപ്പും കൈവരിക്കുന്നത് അനേക വർഷങ്ങളിലെ മാർക്കറ്റിംഗും അഡ്വർടൈസിങും കൊണ്ടാണെന്ന് നമ്മൾ പറയുന്നത് ഗണ്യമായൊരു തുക നിങ്ങൾ മാർക്കറ്റിങ്ങിനും അഡ്വർടൈസിങിനും വേണ്ടി ചെലവഴിച്ചിട്ടുണ്ടെങ്കിൽ അതിലൂടെ നിങ്ങൾക്ക് അവതരിപ്പിക്കാൻ സാധിക്കും നിങ്ങൾ അഡ്വർടൈസിംഗിനും മാർക്കറ്റിംഗിനും ആയി കാലങ്ങളായി ധാരാളം പണം ചെലവഴിച്ചതു കൊണ്ടാണ് നിങ്ങളുടെ സ്ഥാപനത്തെയും ഉൽപ്പന്നങ്ങളെയും ജനമനസ്സുകളിലേക്ക് എത്തിക്കുവാൻ സാധിച്ചത് എന്ന് അതുവഴിയാണ് നിങ്ങളുടെ ട്രേഡ് മാർക്കിന് ജനസമ്മതിയും മതിപ്പും ലഭിച്ചത് എന്ന് അപ്പോൾ ട്രേഡ് മാർക്ക് ഉൽപ്പന്നങ്ങളെ കുറിച്ചുള്ള വിവരങ്ങൾ നൽകുക മാത്രമല്ല മറിച്ച് ഉൽപന്നങ്ങളെ മാർക്കറ്റിൽ പ്രോത്സാഹിപ്പിക്കുക പ്രമോട്ട് ചെയ്യുക എന്ന ഒരു ദൌത്യവും കൂടിയുണ്ട് മിക്കവാറും എല്ലാ പരസ്യങ്ങളും ഉൽപ്പന്നങ്ങളേയും സേവനങ്ങളേയും കുറിച്ചുള്ള വിവരങ്ങൾ നൽകുക എന്നതിനപ്പുറം അവയെ പ്രമോട്ട് ചെയ്യുന്നവ കൂടിയാണ് ഉൽപ്പന്നങ്ങളേയും സേവനങ്ങളേയും വാങ്ങുവാനും ഉപയോഗിക്കുവാനും അത് ജനങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നു റിലീഫ് ഓഫ് പാസിംഗ് ഓഫ് നിലവിൽ വന്നതിനു ശേഷമാണ് ആണ് ട്രേഡ് മാർക്ക് രജിസ്ട്രേഷൻ 9trademark registration ആരംഭിച്ചിരിക്കുന്നത് പാസിംഗ് ഓഫിന് ചെയ്യാൻ സാധിക്കാത്ത ചില കാര്യങ്ങളാണ് രജിസ്ട്രേഷൻനിലൂടെ സാധ്യമാകുന്നത് റിലീഫ് പാസിംഗ് ഓഫിൻറെ ഗുണഫലം നിങ്ങളൾക്ക് കിട്ടണമെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ജനസമ്മതിയും വ്യതിരിക്തതയും തെളിയിക്കേണ്ടതുണ്ട് എന്നാൽ നിങ്ങൾ രജിസ്റ്റർ ചെയ്യുകയാണെങ്കിൽ ഈ രണ്ടു കാര്യങ്ങളും നിങ്ങൾ ചെയ്യേണ്ടതില്ല നിങ്ങൾ ട്രേഡ് മാർക്ക് രജിസ്റ്റർ ചെയ്തു എന്നതിൻറെ പേരിൽ മാത്രം നിങ്ങൾക്ക് ഒരു നിരോധന ഉത്തരവിനെതിരെ റിലീഫ് ലഭിക്കുന്നതാണ് അതേസമയം പാസിംഗ് ഓഫ് ഗുണഫലങ്ങൾ ലഭിക്കണമെങ്കിൽ നിങ്ങൾ തീർച്ചയായും ജനസമ്മതിയും വ്യതിരിക്തതയും തെളിയിക്കേണ്ടിയിരിക്കുന്നു രജിസ്ട്രേഷൻ ചെയ്ത ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് കോടതി മുൻപാകെ വരുന്ന കേസുകളിൽ ഈ രണ്ടു കാര്യങ്ങളും എടുത്തുകളഞ്ഞു എന്നതാണ് രജിസ്ട്രേഷൻ കൊണ്ടുവന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് പ്രൊപ്പോസ്ഡ് യൂസിനു വേണ്ടി നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാൻ പറ്റും എന്നാണ് അതായത് നിങ്ങൾക്ക് ആദ്യം രജിസ്ട്രേഷൻ ലഭിക്കുന്നു അതിനുശേഷമാണ് നിങ്ങൾ ട്രേഡ് മാർക്ക് ഉപയോഗിക്കാൻ തുടങ്ങുന്നത് അൺ രജിസ്റ്റേഡ് ട്രേഡ് മാർക്കുകളുടെ കാലത്ത് ഇത് സാധ്യമായിരുന്നില്ല കാരണം അൺ രജിസ്റ്റേഡ് ട്രേഡ് മാർക്കുകൾ നടപ്പിൽ വരുത്തണമെങ്കിൽ അഥവാ എൻഫോഴ്സ് ചെയ്യണമെങ്കിൽ അവ ഉപയോഗത്തിലിരിക്കുന്നവ ആയിരിക്കണം രജിസ്ട്രേഷൻ മൂലമുണ്ടായ മൂന്നാമത്തെ പ്രയോജനം നമുക്ക് നമ്മുടെ ജനസമ്മതിയും മതിപ്പും കൈവിടാതെ തന്നെ ട്രേഡ് മാർക്ക് മറ്റൊരാൾക്ക് കൈമാറി കൊടുക്കാം എന്നതാണ് ബിസിനസിനേയോ അതിൻറെ ജനസമ്മതിയേയോ കൈവിടാതെ തന്നെ ട്രേഡ് മാർക്ക് കൈമാറ്റം ചെയ്തു കൊടുക്കുക സാധ്യമായിരിക്കുന്നു ട്രേഡ് മാർക്കുകൾ രജിസ്റ്റർ ചെയ്തപ്പോൾ നിങ്ങൾ കൈമാറിയത് മാർക്കുകൾ ഉപയോഗിക്കാനുള്ള അവകാശത്തെ മാത്രമാണ് ആണ് അല്ലാതെ അതിനോട് ചേർന്നുള്ള ജനസമ്മതിയെ നിങ്ങൾ കൈമാറുന്നില്ല രജിസ്ട്രേഷൻ കൊണ്ടുവന്ന സംരക്ഷണം എന്ന് പറയുന്നത് നിങ്ങളുടെ തനിമയെ സംരക്ഷിക്കാനുള്ള അവകാശം ആണ് ഒരു ട്രേഡ് മാർക്ക് വേറൊരു ട്രേഡ് മാർക്കുമായി ഓവർ ലാപ്പ് ചെയ്തുകിടക്കുകയോ അല്ലെങ്കിൽ മാർക്കുകൾ പൊതുവായ സ്വഭാവത്തോടുകൂടിയതാകുകയോ അതുമല്ലെങ്കിൽ വ്യാപാരത്തിന് സാധാരണ ഉപയോഗിക്കുന്ന മാർക്കുകൾ ആകുകയോ ചെയ്താൽ അവ രജിസ്റ്റർ ചെയ്യുവാൻ സാധ്യമല്ല അപ്പോൾ രജിസ്ട്രേഷൻ നിരസിക്കണം എങ്കിൽ അതിന് തക്കതായ വാസ്തവം ഉള്ള കാരണങ്ങൾ ഉണ്ടായിരിക്കണം അതിന് ആപേക്ഷികമായ കാരണങ്ങളുമുണ്ടാകാം അത് നമ്മൾ പിന്നീട് വിശദമായി കാണുന്നതാണ് സംരക്ഷണം ലഭിക്കുന്നത് ഉൽപ്പന്നത്തിൻറെ തനിമയുമായി ബന്ധപ്പെട്ട സംഗതികളിലാണ് തനിമ എന്നത് നമ്മൾ മനസ്സിലാക്കുന്നത് പോലെ ഒരു ഉൽപ്പന്നത്തിൻറെ ധർമ്മമാണ് ഒരു വ്യക്തിയുടെ വ്യക്തിപരമായ ഉൽപ്പന്നം തനിമ ഉള്ളതാണ് അത് കൊണ്ട് തന്നെ മറ്റുള്ളവരുടെ ഉൽപന്നങ്ങളിൽ നിന്നും അത് വേർതിരിച്ചറിയുവാൻ സാധിക്കുന്നതാണ് പേറ്റൻറ്സിനും കോപ്പിറൈറ്റിനും ഡിസൈനും ഉള്ളതുപോലെ പോലെ ട്രേഡ് മാർക്കിന് കുത്തകാവകാശം ഇല്ല എന്തുകൊണ്ടെന്നാൽ ഒരു വ്യക്തിക്ക് പേറ്റൻറ് patenta0 അനുവദിക്കുകയാണെങ്കിൽ അയാൾക്ക് മറ്റാളുകളെ അത് ഉപയോഗിക്കുന്നതിൽ നിന്നും വിൽക്കുന്നതിൽ നിന്നും വില്പനയ്ക്ക് വയ്ക്കുന്നതിൽ നിന്നും ഇറക്കുമതി ചെയ്യുന്നതിൽ നിന്നും തടയാവുന്നതാണ് അതുപോലെതന്നെ ഒരാൾക്ക് ഒരു പുസ്തകത്തിന് കോപ്പിറൈറ്റ് ലഭിക്കുകയാണെങ്കിൽ മറ്റുള്ള ആളുകളെ ആ പുസ്തകത്തിൻറെ പകർപ്പ് ഉണ്ടാക്കുന്നതിൽ നിന്നും തടയുന്നതിന് സാധിക്കുന്നു എന്നാൽ ഒരാൾക്ക് ഒരു ട്രേഡ് മാർക്ക് അനുവദിക്കുകയാണെങ്കിൽ മറ്റ് ആളുകളെ അതെ ബിസിനസ് ചെയ്യുന്നതിൽ നിന്നും തടയുന്നില്ല തടയുന്നത് അവരുടെ ട്രേഡ്മാർക്ക് ഉപയോഗിക്കുന്നതിനെ മാത്രമാണ് ഉദാഹരണത്തിന് ഇപ്പോൾ നിങ്ങൾ മൊബൈൽ ഫോണുകൾ വിൽപ്പന നടത്തുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ആപ്പിൾ എന്ന് ഉപയോഗിക്കാൻ പറ്റില്ല ഇല്ല അത്ര തന്നെ രജിസ്ട്രേഡ് ട്രേഡ് മാർക്ക് ഉപയോഗിക്കുന്നതിനാണ് വിലക്കുകൾ ഉള്ളത് ഉദാഹരണത്തിന് മോട്ടറോള എൽജി സാംസങ് മുതലായവ മറ്റുള്ളവരുടെ സ്വന്തമായ ട്രേഡ് മാർക്ക് ഉപയോഗിക്കുന്നതിനെ മാത്രമാണ് അത് തടയുന്നത് അതുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ സ്വന്തമായ മൊബൈൽ ഫോൺ ബിസിനസ്സിൽ പ്രവേശിക്കാം ഒരു നിബന്ധന മാത്രം നിങ്ങൾക്ക് നിങ്ങളുടെ സ്വന്തമായ ട്രേഡ് മാർക്കും ഉൽപ്പന്നവും ഉണ്ടായിരിക്കണം ആർക്കും നിങ്ങൾക്കെതിരെ പരാതി ഉന്നയിക്കാൻ സാധിക്കുകയില്ല എന്നാൽ ഒരു ഉൽപ്പന്നം പേറ്റൻറ് ചെയ്യപ്പെട്ടത് ആണെങ്കിൽ ഉദാഹരണത്തിന് ലുക്കേമിയ എന്ന അസുഖത്തിന് ചികിത്സിക്കാനുള്ള ഒരു മരുന്ന് ആ മരുന്ന് പേറ്റൻറ് ചെയ്തിട്ടുള്ളതാണ് എങ്കിൽ പിന്നെ വേറൊരു വ്യക്തിയേയോ സ്ഥാപനത്തെയോ ആ മരുന്ന് ഉണ്ടാക്കുന്നതിനോ വിൽക്കുന്നതിനോ അനുവദിക്കുകയില്ല ഈ അർത്ഥത്തിലാണ് പേറ്റൻറ് കുത്തക അവകാശം നൽകുന്നു എന്ന് പറയുന്നത് അതായത് അത് പേറ്റൻറ് ലഭിച്ച ഒരു ഉൽപ്പന്നത്തിൻറെ വ്യാപാര മേഖലയിലേക്ക് വേറൊരാൾക്ക് കടന്നുകയറാൻ ഉൽപാദിപ്പിക്കാനും വ്യാപാരം ചെയ്യാനും സാധിക്കുകയില്ല എന്നാൽ ട്രേഡ് മാർക്കുകൾ ഒരിക്കലും കുത്തകാവകാശം നൽകുന്നില്ല മറിച്ച് ട്രേഡ് മാർക്കുകൾ എക്സ്ക്ലൂസിവായി ഉപയോഗിക്കാനുള്ള അനുമതി മാത്രമാണ് നൽകുന്നത് എന്തുകൊണ്ടാണ് നമ്മൾക്ക് ട്രേഡ് മാർക്കുകൾ വേണം എന്നുള്ളത് വേറെ ചില നീ സ്വീകരണങ്ങളുണ്ട് ഒന്നാമത്തെ നീതീകരണം എന്നുപറയുന്നത് ട്രേഡ് മാർക്കിൽ ഭാവാത്മകത ഉള്ളടങ്ങിയിരിക്കുന്നു ഭാവാത്മക അഥവാ സൃഷ്ടിപരത എന്ന് പറയുമ്പോൾ സൂചിപ്പിക്കുന്നത് വ്യാപാരി വിൽക്കുന്ന വസ്തുവിനെയും വസ്തുവിൽ എന്തൊരു ഗുണം ഉണ്ട് എന്ന് ഉപഭോക്താവ് മനസ്സിലാക്കുന്നുവോ അവ രണ്ടും തമ്മിൽ ട്രേഡ് മാർക്കിൽ ബന്ധപ്പെടുത്തുന്നതിൽ ഒരു ഭാവാത്മകത ഉണ്ട് എന്നാണ് ഉദാഹരണത്തിന് പൊതുജനമോ അല്ലെങ്കിൽ ഉപഭോക്താവോ ആപ്പിൾ ലോഗോ കാണുമ്പോൾ അയാൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു ആ ഉൽപ്പന്നം വരുന്നത് ആപ്പിൾ കമ്പനിയിൽ നിന്നാണ് ആപ്പിൾ കമ്പനിയുടെ എല്ലാ ഉൽപ്പന്നങ്ങളുടെ കാര്യത്തിലും അയാൾക്ക് ഉറപ്പുള്ള ചില കാര്യങ്ങളുണ്ട് അതായത് അതിൻറെ ഗുണനിലവാരത്തിൻറെ ഉറപ്പിലും അതിൻറെ ഉൽപ്പന്നങ്ങൾ ശരിയായി പ്രവർത്തിക്കുമെന്ന കാര്യത്തിലും മറ്റനേകം കാര്യങ്ങളിലും ഈ ആൾക്ക് കൃത്യമായ അവബോധം ഉണ്ടാകുന്നുണ്ട് ഇതെല്ലാം ഉണ്ടാകുന്നത് ആപ്പിളിൻറെ ലോഗോ കാണുന്നതിലൂടെ ആണ് ഇപ്പോൾ ഒരു വ്യക്തി ഒരു ഉൽപ്പന്നം കണ്ടു ഉൽപ്പന്നം ആപ്പിളിൻറെ ഉൽപന്നമാണ് എന്ന് മനസ്സിലാക്കുമ്പോൾ മുകളിൽ പറഞ്ഞതുപോലെ അയാൾക്ക് കുറെയേറെ കാര്യങ്ങൾ അതിനോടു ചേർന്നു മനസ്സിലാകുന്നു കാരണം അത് ആപ്പിൾ കമ്പനിയുടേതാണ് ഇതുപോലെ തന്നെയാണ് നൈക്കീയുടെ കാര്യത്തിലും നൈക്കീ ഒരിക്കലും അവരുടെ ഉൽപ്പന്നങ്ങളുടെ മുകളിൽ നൈക്കീ എന്ന് എഴുതാറില്ല അവർ അവരുടെ ഉൽപ്പന്നങ്ങൾ വിവരിക്കുന്നത് അല്ലെങ്കിൽ പ്രദർശിപ്പിക്കുന്നത് അവരുടെ അടയാളങ്ങൾ കൊണ്ടാണ് ആപ്പിൾ കമ്പനിയെ പോലെ തന്നെ ഈയൊരു ഭാവാത്മകമായ ബന്ധപ്പെടുത്തൽ ആപ്പിൾ കൈവരിക്കുന്നത് കുറെ വർഷങ്ങൾ കൊണ്ടാണ് ആളുകൾ ആപ്പിൾ ലോഗോ കാണുന്നു കാണുമ്പോൾ തന്നെ ആപ്പിൾ കമ്പനിയുടെ ജനസമ്മതി മതിപ്പ് എന്നു തുടങ്ങിയുള്ള മറ്റനേകം കാര്യങ്ങൾ ചേർത്ത് വായിക്കാൻ അവർക്ക് സാധിക്കുന്നു ഇത് ആ കമ്പനി തന്നെ അല്ലെങ്കിൽ വ്യവസായം തന്നെ സൃഷ്ടിച്ചെടുക്കുന്ന ഒരു അവസ്ഥയാണ് ഇവിടെ ഒരു എതിരഭിപ്രായം ഉയർന്നു വരാൻ സാധ്യതയുണ്ട് അതായത് ഈ ഭാവാത്മകമായ ബന്ധപ്പെടുത്തൽ വ്യവസായ മാത്രം ചെയ്തതല്ല മറിച്ച് പൊതുജനത്തിനും അല്ലെങ്കിൽ ഉപയോക്താവിനും അതിലൊരു പങ്കുണ്ട് കാരണം നോക്കുന്ന വ്യക്തിക്ക് അയാൾക്ക് ഒരു അവബോധം ഉണ്ട് അല്ലെങ്കിൽ അറിവുണ്ട് എന്തൊക്കെയാണ് ആപ്പിൾ കമ്പനിയുടെ ഉൽപ്പന്നങ്ങളോട് കൂടി ചേർത്ത് വായിക്കേണ്ടത് എന്ന് അതുകൊണ്ട് പൊതുജനത്തിൻറെ കയ്യിൽ നിന്നും ഒരു സംഭാവന ഇക്കാര്യത്തിലേക്ക് വരുന്നുണ്ട് ഇത് വ്യാപാരിയുടെ മാത്രമല്ല മറിച്ച് ഉപഭോക്താക്കൾ ഗ്രഹിക്കുന്നതിൽ ഉള്ളടങ്ങിയിരിക്കുന്ന ഒരു ഭാവാത്മകത കൂടിയുണ്ട് അപ്പോൾ ആദ്യത്തെ നീതീകരണം എന്ന് പറയുന്നത് ട്രേഡ് മാർക്കുകൾ വ്യാപാരിയെയും അയാളുടെ സ്ഥാപനത്തിൽ നിന്ന് വരുന്ന ഉൽപ്പന്നങ്ങളേയും സേവനങ്ങളുേയും തമ്മിൽ ഭാവാത്മകമായി ബന്ധിപ്പിക്കുന്നു എന്നതാണ് ട്രേഡ് മാർക്കുകൾക്ക് ഈ വിധത്തിലുള്ള ഒരു ഭാവാത്മകമായ ബന്ധമുള്ളതുകൊണ്ട് അത് ക്വാളിറ്റിയെ ഗുണപരതയെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് കാരണം ഒരു വ്യക്തി ഒരു ട്രേഡ് മാർക്ക് നോക്കി ആ കമ്പനിയുടെ ഉൽപ്പന്നങ്ങളുടെ ക്വാളിറ്റി നിശ്ചയിക്കുന്നു എങ്കിൽ ആ കമ്പനി ക്വാളിറ്റിയിൽ മുതൽമുടക്കാൻ തുടങ്ങിയിരിക്കുന്നു ഇതാണ് ട്രേഡ് മാർക്കുകളുടെ ഭാവാത്മകമായ ബന്ധപ്പെടുത്തലിനുള്ള നീതീകരണം അതായത് മാർക്കുകൾ ഭാവാത്മകമായി ഉൽപന്നങ്ങളെ അതിൻറെ ഉറവിടവും ആയി ബന്ധിപ്പിക്കുന്നു രണ്ടാമത്തെ നീതീകരണം എന്നു പറയുന്നത് മാർക്കുകൾ വിവരങ്ങൾ പ്രദാനം ചെയ്യുന്നു എന്നതാണ് ഉല്പന്നങ്ങളും സേവനങ്ങളും വിൽക്കുന്ന അനേകമാളുകൾ ഒരു മാർക്കറ്റിൽ ഉണ്ടായിരിക്കെ അവയെക്കുറിച്ചുള്ള കൃത്യമായ വിവരങ്ങൾ ലഭിക്കുക എന്നത് വളരെ അത്യാവശ്യമാണ് ഈ ഘട്ടത്തിലാണ് ഉൽപ്പന്നങ്ങളെ കുറിച്ചുള്ള വിവരങ്ങൾ നൽകാനുള്ള ഏറ്റവും എളുപ്പ വഴിയായി മാർക്കുകൾ മാറുന്നത് നിങ്ങൾ ഒരു ലോഗോ കാണുകയാണെങ്കിൽ ഉദാഹരണത്തിന് ടാറ്റായുടെ അല്ലെങ്കിൽ സുസുക്കിയുടെ അതുമല്ലെങ്കിൽ ഹോണ്ടയുടെ ലോഗോ കാണുമ്പോൾ നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് തന്നെ ആ ലോഗോ പ്രതിനിധാനം ചെയ്യുന്ന ഉൽപ്പന്നത്തെ കുറിച്ചുള്ള ഒരു ഏകദേശ വിവരം നിങ്ങളുടെ ഉള്ളിലേക്ക് കൊണ്ടുവരുന്നു അപ്പോൾ ഒരു സ്ഥാപനത്തിൻറെ ലോഗോ അതിൻറെ ഉൽപ്പന്നങ്ങളെ കുറിച്ചുള്ള വിവരങ്ങൾ ഉപഭോക്താക്കൾക്ക് പ്രദാനം ചെയ്യുന്നു മാർക്കിൽലൂടെ നൽകിയ വിവരങ്ങൾ മൂലം രണ്ട് കമ്പനികൾ തമ്മിലുള്ള തർക്കത്തിലേക്ക് നയിച്ച ഒരു ചരിത്രമുണ്ട് ഹിന്ദുസ്ഥാൻ യൂണിലിവർ കമ്പനിയും അമുൽ കമ്പനിയും തമ്മിൽ ഇത് നമ്മൾ പിന്നീട് കാണും അടുത്ത നീതീകരണം ഫെയർനെസുമായി ബന്ധപ്പെട്ടതാണ് ട്രേഡ് മാർക്ക് കാണുമ്പോഴേ ഉൽപ്പന്നത്തെ കുറിച്ചുള്ള വിവരം ലഭിക്കത്തക്ക വിധത്തിൽ അവ രണ്ടും തമ്മിൽ ബന്ധപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ളത് നമ്മൾ നേരത്തെ കണ്ടു ഈ അസോസിയേഷനിൽ നിന്നുണ്ടാകുന്ന പ്രയോജനങ്ങളെ കുറിച്ച് മനസ്സിലാക്കുവാൻ വ്യാപാരിയെ അനുവദിക്കണം ആരെങ്കിലും ഈ അസോസിയേഷനിൽ നിന്ന് മുതലെടുക്കാൻ ശ്രമിക്കുന്നു എങ്കിൽ ട്രേഡ് മാർക്ക് ലോ അതിൽ ഇടപെടുകയും അതിന് തടയിടുകയും വേണം മാത്രമല്ല വ്യാപാരി കുറേക്കാലമായി ട്രേഡ് മാർക്ക് ഉപയോഗിക്കുക വഴി വളർന്നു വന്നിരിക്കുന്ന ജനപ്രീതിയും മതിപ്പും മാർക്കറ്റിൻറെ താല്പര്യം സംരക്ഷിക്കുന്നതിനുവേണ്ടി കൂടി ഉപയോഗിക്കപ്പെടണം അതായത് യഥാർത്ഥ വ്യാപാരിയുടെ ഉൽപ്പന്നം ആണെന്ന് കരുതി അതിനു സമാനമായ മറ്റൊരു ഉൽപ്പന്നം വാങ്ങുക എന്ന അബദ്ധത്തിലേക്ക് ഉപഭോക്താക്കൾ നയിക്കപ്പെടരുത് അപ്പോൾ ഈ ഫെയർനെസ് പാർട്ട് എന്ന് പറയുന്നത് ട്രേഡ് മാർക്ക് കാണുമ്പോഴേ അതുമായി ബന്ധപ്പെട്ട ഉൽപന്നങ്ങളെയും സേവനങ്ങളെയും അതിൻറെ ഉറവിടമായ സ്ഥാപനത്തെയും ബന്ധിപ്പിക്കുന്ന വ്യാപാരിയുടെ ഭാവാത്മകമായ പ്രവർത്തനത്തിൽ നിന്നും പ്രയോജനം എടുക്കുവാൻ വ്യാപാരിയെ അനുവദിക്കണം എന്നതാണ് ട്രേഡ് മാർക്കുകൾ രണ്ടുതരത്തിൽ സംരക്ഷിക്കാമെന്ന് നമ്മൾ കണ്ടു രജിസ്റ്റർ ചെയ്തുകൊണ്ട് മാർക്കുകൾ നമുക്ക് സംരക്ഷിക്കാം രജിസ്റ്റർ ചെയ്ത ട്രേഡ് മാർക്കുകൾ കോടതി മുൻപാകെ നടപ്പിൽ വരുത്തുവാൻ സാധിക്കും രജിസ്റ്റർ ചെയ്യാത്ത മാർക്കുകളും പ്രൊട്ടക്റ്റ് ചെയ്യാം റിലീഫ് ഓഫ് പാസിംഗ് ഓഫ് എന്ന നിയമത്തിലെ പഴുതുകൾ ഉപയോഗിച്ച് കൊണ്ടാണ് നമ്മൾ രജിസ്റ്റർ ചെയ്യാത്ത ട്രേഡ് മാർക്കുകളെ സംരക്ഷിക്കുന്നത് ഈ കാര്യത്തിൽ അതിൽ വ്യാപാരി ട്രേഡ് മാർക്കിൻറെ അല്ലെങ്കിൽ ബിസിനസിൻറെ ജനസമ്മതിയും മതിപ്പും തെളിയിക്കേണ്ടിയിരിക്കുന്നു